34 എന്നീ യൂണിറ്റുകളിൽ നമ്മൾ കണ്ടത് സീരിസ്സിലും പാരല്ലെല്ലിലും ഘടിപ്പിച്ചിട്ടുള്ള ഘടകങ്ങളെ ആണ് കൂടാതെ കൺട്രോൾഡ് സ്രോതസ്സുകളുടെ ഉപയോഗം ഇത് ഉൾപ്പെടുന്ന ഉദാഹരണങ്ങൾ ഞാൻ ഇപ്പോൾ പറയാം ഇത് പോലത്തെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഈ രണ്ടു യൂണിറ്റിലേയും അസൈൻമെന്റിൽ പ്രതീക്ഷിക്കാം ഇപ്പോൾ നമുക്ക് വളരെ ലളിതമായ ഒരു ഉദാഹരണം എടുക്കാം ഇതുപോലെ രണ്ടു റെസിസ്റ്ററുകൾസീരിസിൽ ഉള്ള സർക്യൂട്ട് ഇതിനെ സംബന്ധിച്ചിട്ടുള്ള ഏത് ചോദ്യവും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഉദാഹരണമായി നോഡ് A യുടെയും B യുടെയും ഇടയിൽ ഉള്ള തുല്യത സർക്യൂട്ട് എന്താണെന്നു ചോദിക്കാം സ്പഷ്ടമായി നമുക്ക് കാണാം 3 കിലോ Ω പോലുള്ള റെസിസ്റ്റൻസ് കാരണം ഞാൻ നേരത്തെ ചർച്ച ചെയ്തതാണ് ഇത് കുറെ റെസിസ്റ്ററുകളുടെ സീരിസ്സ് കൂട്ടുകെട്ട് വ്യതിരിക്തമായ റെസിസ്റ്ററുകളുടെ ആകെതുകയ്ക്ക് സമം ആണെന്ന് ഇനി നമുക്ക് ഒരു റെസിസ്റ്റൻസ് പാരലൽ ആയി വെച്ചിട്ട് സർക്യൂട്ട് സങ്കീർണ്ണമാക്കാം അപ്പോൾ ഇത് പരിഹരിക്കാൻ വേറെ ഒട്ടനേക വഴികളുണ്ട് പക്ഷെ ഏറ്റവും എളുപ്പം നിങ്ങൾ മനസ്സിലാക്കുക ഇവിടെ നമുക്ക് ഒരു പാരലൽ കൂട്ടുകെട്ട് ഉണ്ട് കൂടാതെ ഈ പാരലൽ കൂട്ടുകെട്ട് ഒരൊറ്റ റെസിസ്റ്റൻസ് പോലെയാണ് ഇനി ഇതിനെ ഞാൻ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് വിളിച്ചാൽ 1Reffective12 k18 k എന്നിരുന്നാലും രണ്ടു റെസിസ്റ്ററുകൾ പാരലൽ ആയിട്ടുള്ളതിന്റെ ഫോർമുല നിങ്ങൾക്ക് സുപരിചിതമാണ് R1 ഉം R2ഉം പാരലൽ ആണെങ്കിൽ അതിന്റെ പരിണതഫലം ഒരൊറ്റ റെസിസ്റ്റൻസ് മൂല്യം R1 R2 R1R2 ആണ് പൊതുവായ ബന്ധത്തിൽ നിന്നാണ് ഇത് വരുന്നത് അതായത് എഫക്റ്റീവ് റെസിസ്റ്റൻസ്സിന്റെ റെസിപ്രോക്കൽ ആണ് വ്യതിരിക്ത റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കലിന്റെ തുക ഇത് നിങ്ങൾ കണക്കു കൂട്ടിയാൽ അറിയാം ഈ കേസ്സിൽ R എഫക്റ്റീവ് 1 3 കിലോ ഓം ആണെന്ന് അപ്പോൾ ആ മൊത്തമായ കൂട്ടുകെട്ട് 1 6 കിലോ ഓം ആകും ഇതിനോട് സീരിസ് ആയിട്ട് നമുക്ക് 1 കിലോ ഓം ഉണ്ട് അപ്പോൾ പുതിയ സർക്യൂട്ടിൽ നമുക്ക് 8 കിലോ ഓം റെസിസ്റ്റർ കൂടി ഉണ്ടെങ്കിൽ നമുക്ക് എഫക്റ്റീവ് റെസിസ്റ്റൻസ്സ് 1 61 അതായത് 2 6 കിലോ ഓം അപ്പോൾ ഇത് വളരെ ലളിതമാണ് ഇനി കൺട്രോൾഡ് സ്രോതസ്സു വെച്ചു ഞാൻ വേറൊരു ഉദാഹരണം കാണിച്ചു തരാം നമ്മൾ പറയുകയാണ് ഇത് A ഇത് B ഞാൻ ഇപ്പോഴും അതെ ചോദ്യം തന്നെ ആവർത്തിക്കുകയാണ് എന്താണ് A യുടെയും B യുടെയും ഇടയിൽ ഉള്ള റെസിസ്റ്റൻസ് യഥാർത്ഥ ചോദ്യം വേറെ ആകാം അവിടെ ഒരു വോൾടേജ്സ്രോതസ്സു ഉണ്ടാകാം എന്നിട്ട് നിങ്ങളോടു കറണ്ട് കണ്ടുപിടിക്കാനും പറയാം അതെല്ലാം നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നത് ആണ് ഞാൻ ഈ വോൾട്ടേജിനെ Vx എന്ന് നിർവചിക്കട്ടെ ഇനി ഞാൻ ഒരു വോൾടേജ് നിയന്ത്രിതമായ കറണ്ട് സ്രോതസ്സു നിർവചിക്കുകയാണ് അതായത് 1 മില്ലിസീമെൻ തവണ Vxഎന്ന് വീണ്ടും ഞാൻ ചോദിക്കുകയാണ് നോഡ് A യുടെയും B യുടെയും തമ്മിലുള്ള തുല്യത എന്താണ് ഇതാണ് ഒരു സർക്യൂട്ടിന്റെ തുല്യത കണ്ടുപിടിക്കാനുള്ള ശെരിയായ മാതൃക വോൾടേജ് പ്രയോഗിക്കുക കറണ്ട് കണ്ടുപിടിക്കുക തീർച്ചയായും നിങ്ങൾക്ക് കറണ്ട് സ്രോതസ്സു പ്രയോഗിക്കാം എന്നിട്ട് വോൾടേജ് കണ്ടുപിടിക്കാം ഈ കേസ്സിൽ വോൾടേജ് പ്രയോഗിക്കുന്നതാണ് ഞാൻ പരിഗണിക്കാൻ പോകുന്നത് ഇപ്പോൾ വിശദമായി എനിക്ക് Vtest ഉണ്ടെങ്കിൽ അത് ഈ രണ്ടു റെസിസ്റ്ററുകളുടെ കൂട്ടുകെട്ടിന്റെ കുറുകെ ആണ് പ്രയോഗിക്കുക അപ്പോൾ ഇവിടെ ഒഴുകുന്ന കറണ്ട് Vtestനെ ഈ രണ്ടിന്റെയും ഇടയിൽ ഉള്ള മൊത്തമായ റെസിസ്റ്റൻസ് കൊണ്ട് ഹരിച്ചത് ആണ് ഞാൻ ഈ രണ്ടു റെസിസ്റ്ററുകൾ ഉള്ള സീരീസ് ശാഖയെ മാത്രമാണ് നോക്കുന്നത് അത് Vtest 3 കിലോ ഓം ആയിട്ട് ഹരിച്ചത് ആണ് കൂടാതെ ഈ Vx കറണ്ട് ഒഴുകുന്നതിന്റെ അത്രെയും തവണ അവിടത്തെ വോൾടേജിന് തുല്യം ആണ് അതായത് 3 കിലോ ഓം തവണ 2 കിലോ ഓം ആയിട്ട് ഹരിച്ചത് അതായത് 2 തവണ V test ഭാഗം 3 ഇത് നിങ്ങൾക്ക് സുപരിചിതം ആയിട്ട് ഉള്ള വോൾടേജ് ഡിവൈഡഡ് ഫോർമുല ആണ് എനിക്ക് V R1 R2ഉണ്ടെങ്കിൽ ഇതിനു കുറുകെ എനിക്ക് VR2R1R2 ഉണ്ടാകും അപ്പോൾ അതാണ് എനിക്ക് യഥാർത്ഥത്തിൽ കിട്ടുന്നത് ഇനി ഇത് കണ്ടുപിടിക്കുവാനുള്ള വഴി എന്താണെന്ന് വെച്ചാൽ ഇതിലൂടെ ഉള്ള കറണ്ട് VR1R2ആണെന്നാണ് ആ കറണ്ട് അത്രയും തവണ ഈ റെസിസ്റ്റൻസ് അത് R2 ന് കുറുകെ ഉള്ള വോൾടേജ് ആണ് എന്നിട്ട് ഈ നിയന്ത്രിതമായ കറണ്ട് സ്രോതസ്സ് ഒരു കറണ്ട് വലിക്കും അതായത്Vx തവണ 1 മില്ലിസീമെൻസ് അതായത് 1 മില്ലിസീമെൻസ് തവണ Vtest23 അപ്പോൾ ഞാൻ ആകെ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ Vx ന്റെ മൂല്യം ഈ സ്ഥലത്തു പകരം വെച്ചു ഇപ്പോൾ മൊത്തമായി കറണ്ട് I test ഇതിലൂടെ പ്രവഹിക്കുന്ന കറണ്ടും അതിലൂടെ പ്രവഹിക്കുന്ന കറണ്ടും കൂടി കൂട്ടുമ്പോഴാണ് അപ്പോൾ I test Vx3 കിലോ ഓം 1 മില്ലിസീമെൻസ് തവണ Vtest23 അതിനാൽ VtestItestഎന്താകുമെന്ന് വെച്ചാൽ 13കിലോ ഓം 1 മില്ലിസീമെൻസ് 23 അതായത് നിങ്ങൾ സാഷാത്കരിക്കുന്ന ഭാഗം 1 ബൈ 3 മില്ലിസീമെൻസ് അതിനാൽ ഇത് 1 ബൈ 13 മില്ലിസീമെൻസ് 23മില്ലിസീമെൻസ് അതിനാൽ A യുടെയും B യുടെയും ഇടയിലുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് VtestItest ആണ് അതായത് 1 ബൈ 13 മില്ലിസീമെൻസ് 23മില്ലിസീമെൻസ് അതായത് അടിസ്ഥാനമായി 1 കിലോ Ω അപ്പോൾ നിങ്ങളോട് വേറെ കുറെ ചോദ്യങ്ങളും ചോദിക്കാം ഉദാഹരണത്തിന് ഈ ശാഖയിലൂടെ ഒഴുക്കുന്ന കറണ്ട് എത്രയെന്നു ചോദിക്കാം അല്ലെങ്കിൽ ഈ ശാഖയിലൂടെ ഒഴുക്കുന്ന കറണ്ട് അല്ലെങ്കിൽ സർക്യൂട്ട് കുറെ കൂടി സങ്കീർണമാക്കിയിട്ട് സർക്യൂട്ടിലെ വേറെ എവിടെയെങ്കിലും ഉള്ള കറണ്ടൊ വോൾട്ടേജോ എത്രയെന്ന് ചോദിക്കാം പക്ഷെ നിങ്ങൾക്ക് ഒരിക്കൽ എങ്കിലും വോൾടേജ് സ്രോതസ്സ് പ്രയോഗിക്കാൻ സാധിക്കുകയും ഈ കണക്ക് കൂട്ടലുകൾ ചെയ്യുവാൻ സാധിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് വേറെ ഏത് അളവും കണ്ടുപിടിക്കാൻ സാധിക്കണം അപ്പോൾ ഈ ഉദാഹരണത്തിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് 1 കിലോ ഓം ആണ്